പ്രിയ പങ്കാളികളെ ഈ കോഴ്സിന്റെ അവസാന മൊഡ്യൂളിലേക്ക് സ്വാഗതം മുമ്പത്തെ മൊഡ്യൂളിൽ ബോഡി ലാംഗ്വേജ് എങ്ങനെ ആശയവിനിമയം നടത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനം ഗസ്റ്റോറിക്സ് വിമർശനത്തിൽ ഇതിന് ഇപ്പോൾ ഒരു പ്രധാന സ്ഥാനം നൽകുന്നത് ആശയവിനിമയത്തിനുള്ള ഉപാധി എന്ന നിലയിൽ ഭക്ഷണത്തിന്റെ പ്രാധാന്യം പരിശോധിക്കുമ്പോൾ സാംസ്കാരിക പഠന മേഖലയിൽ ഈ ചിന്തയ്ക്ക് തുടക്കമിട്ട ആളുകളെ നാം പരാമർശിക്കേണ്ടതുണ്ട് ഭക്ഷണം ഒരു സാഹചര്യമാണെന്നും അത് നമ്മുടെ സംസ്കാരവുമായി അടുത്ത ബന്ധമുണ്ടെന്നും അഭിപ്രായപ്പെട്ട റോളണ്ട് ബാർത്തിനേ എന്നിവരുടെ ആശയങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഒരു സാംസ്കാരിക ഉൽപ്പന്നമെന്ന നിലയിൽ ഭാഷയുടെ അതേ രീതികളോട് ചേർന്നുനിൽക്കുന്നതാണ് ഭക്ഷണം ഭക്ഷണവും ഭാഷയും തമ്മിലുള്ള പൊതുവായ സ്വഭാവം എളുപ്പത്തിൽ മനസിലാക്കാൻ കഴിയും കാരണം ഭക്ഷണം സാമൂഹിക ബന്ധങ്ങളെയും സാംസ്കാരിക പശ്ചാത്തലങ്ങളെയും കുറിച്ചുള്ള പാറ്റേണുകൾ പ്രകടിപ്പിക്കുന്ന ഒരു കോഡ് കൂടിയാണ് ഈ ലേഖനം പറയുന്നു "നമ്മൾ എന്ത് കഴിക്കുന്നു അത് എങ്ങനെ നേടുന്നു ആരാണ് അത് തയ്യാറാക്കുന്നത് ആരാണ് മേശയിലിരിക്കുന്നത് ആദ്യം കഴിക്കുന്നത് തുടങ്ങിയവയെല്ലാം ഒരർഥത്തിൽ സമ്പന്നമായ ഒരു ആശയവിനിമയ രീതിയാണ് ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിനപ്പുറം നമ്മൾ കഴിക്കുന്നതു എന്താണ് ആരുമായി ആണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്നിവ വ്യക്തികൾ കമ്മ്യൂണിറ്റികൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പ്രചോദിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഘടകങ്ങളാണ് " അതിനാൽ ഒരു വീട്ടുജോലിയിൽ നിന്ന് ഭക്ഷണം തയ്യാറാക്കലും വിളമ്പലും പ്രൊഫഷണൽ ആശയവിനിമയ രംഗത്തേക്ക് കടന്നിട്ടുണ്ട് കൂടാതെ നമുക്കറിയാം ഉച്ചഭക്ഷണത്തിനിടെ കോഫി ബ്രേക്ക്നിടെ ഒക്കെ നടത്തുന്ന നിരവധി മീറ്റിംഗുകൾ ഉണ്ട് അതിനാൽ ഭക്ഷണം ഒരു ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് നമ്മൾ ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്ന ലെവൽ നമ്മുടെ മനോഭാവം എന്നിവ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന രീതിയിലൂടെയും ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുന്ന രീതിയിലൂടെയും അറിയിക്കാൻ കഴിയും നമ്മുടെ സംഭാഷണത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഔപചാരികതയുടെ അളവ് നിലനിർത്തുന്നതിന് ഭക്ഷണത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും സഹായത്തോടെ ആശയവിനിമയം നടത്താം അതേസമയം നമ്മുടെ പ്രൊഫഷണൽ ഡയലോഗുകളുടെ ഭാഗമായി ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഭക്ഷണം നമ്മളെ സഹായിക്കുന്നു ഇത് പാരമ്പര്യത്തെ ആശയവിനിമയം ചെയ്യുന്നു സ്വാഗതാർഹമാണ് ഒപ്പം അടുത്ത ബോണ്ടിംഗിനെ എളുപ്പത്തിൽ പ്രതിനിധീകരിക്കാൻ കഴിയും നമ്മൾ ഒരു വ്യക്തിയെ പരിപാലിക്കുന്നുവെന്നോ അല്ലെങ്കിൽ മറ്റ് വ്യക്തിയുമായി ഔപചാരിക നിബന്ധനകൾ പാലിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നോ ഇത് ആശയവിനിമയം നടത്തുന്നു അതിനാൽ ഭക്ഷണം ആനന്ദത്തിന്റെയും അഭിനന്ദനത്തിന്റെയും ഒരു മനോഭാവവും അതോടൊപ്പം അതൃപ്തി ശത്രുത അല്ലെങ്കിൽ ഒരു മറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പും നിർദ്ദേശിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം ഈ കാരണങ്ങളാൽ ഭക്ഷ്യപഠനങ്ങൾ അതിവേഗത്തിൽ നോൺ വെർബൽ സന്ദേശങ്ങളുടെ ഭാഗമായി മാറുന്നതായി നമുക്ക് കാണാം അതിനാൽ ഈ സന്ദർഭത്തിൽ എന്താണ് പ്രധാനം എന്നാൽ ഭക്ഷണം നമ്മോട് കൃത്യമായി എന്താണ് ആശയവിനിമയം നടത്തുന്നത് രണ്ടാമതായി ആശയവിനിമയം ചെയ്ത സന്ദേശം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു ഭക്ഷണം ബഹുമുഖമാണ് അത് നമ്മെ രൂപപ്പെടുത്തുന്നു നമ്മുടെ സ്വത്വത്തെ രൂപപ്പെടുത്തുന്നു നമ്മുടെ സാമൂഹിക മൂല്യങ്ങളെ രൂപപ്പെടുത്തുന്നു ഇത് നമ്മുടെ സാംസ്കാരിക വളർച്ചയുടെ ഒരു ഭാഗമാണ് നമ്മൾ എന്ന വ്യക്തിയെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് കഴിക്കുന്നത് എങ്ങനെ കഴിക്കുന്നു എന്നത് ഒരു പ്രധാന ഭാഗമാണ് അതേസമയം വാക്കുകളിലും ചിത്രങ്ങളിലും സാഹിത്യത്തിലും നമ്മുടെ ദൈനംദിന സംഭാഷണത്തിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ പങ്കിടുന്ന ഫോട്ടോഗ്രാഫുകളിലും ഭക്ഷണം എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എന്നതും പ്രധാനമാണ് ഉദാഹരണത്തിന് പോഷണത്തിനായി ഒരു പാനീയം കഴിക്കുന്നതിനേക്കാൾ ഒരു ഇടവേള എടുക്കുക എന്ന ആശയവുമായി കോഫി ഇപ്പോൾ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സൂചനകൾ കാരണം ഞങ്ങളുടെ വസ്ത്രധാരണത്തിലൂടെ കളർ കോഡുകൾ മുതലായവയിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങൾ പോലെ തന്നെ നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ ഈ മാനവും പ്രധാനമാണെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും കൂട്ടായ ആത്മാഭിമാനവും ഗ്രൂപ്പ് ഐക്യദാർഢ്യവും നേടാനും ഇത് നമ്മളെ സഹായിക്കുന്നു ഭക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പുകളും മുൻഗണനകളും ഒരേ സംസ്കാരത്തിനുള്ളിലെ പരസ്പര സംഭാഷണത്തിലെ നിരവധി സൂചനകൾ നിർദ്ദേശിക്കുന്നു ഉദാഹരണത്തിന് അവർ ക്ലാസ് എളുപ്പത്തിൽ നിർദ്ദേശിക്കുന്നു പിസ്സയിൽ ഒരു പ്രത്യേക ടോപ്പിംഗ് ഇറ്റലിയിലെ ഒരു രുചിയെ സൂചിപ്പിക്കുന്നു അതേസമയം ഒരു സൂപ്പർമാർക്കറ്റിൽ ഫ്രീസുചെയ്ത പിസ്സ ഓർഡർ ചെയ്യുന്നത് വേഗതയേറിയതും വിലകുറഞ്ഞതുമായ വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തെ സൂചിപ്പിക്കുന്നു അതേസമയം സാമൂഹികവും സാംസ്കാരികവുമായ മുൻഗണനകളും ഇത് നിർദ്ദേശിക്കുന്നു ഉദാഹരണത്തിന് ജാപ്പനീസ് ആളുകൾ പ്രോട്ടീന്റെ ഉറവിടമായി കടൽപ്പായൽ തിരഞ്ഞെടുക്കാം പക്ഷേ അമേരിക്കൻ ജനതയ്ക്ക് ഇത് ഇഷ്ടം ഉണ്ടാകണമെന്നില്ല പാശ്ചാത്യ സംസ്കാരങ്ങളിൽ ഉദാഹരണത്തിന് അമേരിക്കയിൽ ആളുകൾ കോൺ ഓൺ ദി കോബ് കഴിക്കുന്നു എന്ന് കേട്ട് ചിലർ ആശ്ചര്യപ്പെട്ടേക്കാം എന്നാൽ ചൈനയിൽ അടിസ്ഥാനപരമായി ഇതിനെ വളർത്തുമൃഗങ്ങളുടെ ഭക്ഷണമായി കണക്കാക്കുന്നു അതേസമയം ദേശീയ അഭിരുചികളും ജനപ്രിയമായി ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ പ്രതിഫലിക്കുന്നു വിവിധതരം അമേരിക്കൻ ഭക്ഷണങ്ങളിൽ പഞ്ചസാര ഉൾപ്പെടുത്തുന്നത് സാധാരണമാണെന്ന് നമുക്ക് കാണാം മറുവശത്ത് ഫ്രാൻസിൽ ഭക്ഷ്യവസ്തുക്കൾ തയ്യാറാക്കുന്നതിൽ പഞ്ചസാരയ്ക്ക് സമാനമായ പങ്ക് ഇല്ല അതിനാൽ ഭക്ഷണം ഒരു സമകാലിക പഠന മേഖലയാണ് അതേ സമയം വ്യക്തിയുടെ സാമൂഹികവും സാംസ്കാരികവുമായ സജ്ജീകരണങ്ങളെക്കുറിച്ച് കാര്യമായി പറഞ്ഞുകൊണ്ട് മറ്റ് ആളുകളുടെ ആശയവിനിമയ രീതികൾ വിശകലനം ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കുന്നു ഭക്ഷണത്തിന്റെ സാർവത്രിക ആവശ്യം വ്യക്തികളെയും ഗ്രൂപ്പുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു കാലക്രമേണ അതിന്റെ മുൻഗണനകളും നിലവിലുള്ള സാമൂഹ്യക്രമവും മാറുന്നു കാലക്രമേണ സംസ്കാരങ്ങൾക്കുള്ളിലെ മുൻഗണനകൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ മാറ്റങ്ങൾ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നൽകുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണത്തിന് ഒരു രാജ്യത്തിന്റെ ചരിത്രപരമായ വികാസത്തെക്കുറിച്ചും ഒരു പ്രത്യേക ഭക്ഷ്യവസ്തുവിന് മുൻഗണന നൽകുന്നത് എന്തുകൊണ്ടാണെന്നും ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളെക്കുറിച്ചും നമ്മളോട് പറയാൻ കഴിയും അതേസമയം സമൂഹങ്ങൾക്കകത്തും പുറത്തും ഉള്ള കുടിയേറ്റത്തെക്കുറിച്ചുള്ള സൂചനകൾ ഇത് നൽകുന്നു ക്രമേണ ഭക്ഷണം നമ്മുടെ ദേശീയ ഐഡന്റിറ്റിയുടെയും പ്രതിഫലനമായി മാറുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേസമയം ഭക്ഷണം ആചാരാനുഷ്ഠാനങ്ങളുമായും സംസ്കാരവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു പ്രതീകാത്മകമായി ബാധിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ പങ്കെടുക്കുന്നതിന് ഉചിതമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത സ്വഭാവത്തിന്റെ സ്വമേധയാ ഉള്ള പ്രകടനമായി ആചാരത്തെ നിർവചിക്കാം നമ്മുടെ ദിനചര്യയുടെ സുപ്രധാന ഘടകങ്ങളും ജീവിതത്തിലെ സുപ്രധാന ഘട്ടങ്ങളുമാണ് ഭക്ഷണം ഉൾപ്പെടുന്ന ആചാരങ്ങൾ ഉദാഹരണത്തിന് ജന്മദിനങ്ങൾ ഉത്സവങ്ങൾ വിവാഹങ്ങൾ അവധിദിനങ്ങൾ ശവസംസ്കാരങ്ങൾ എന്നിവ ഒരു പ്രത്യേക തരം ഭക്ഷണം തയ്യാറാക്കുന്നതുമായും അത് എങ്ങനെ വിളമ്പുന്നു എന്നതുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ആചാരപരമായ സന്ദർഭങ്ങളിൽ ഭക്ഷണം പലപ്പോഴും ജീവിതം സ്നേഹം സന്തോഷം ദു ഖം എന്നിവയുടെ പ്രകടനമായി നിലകൊള്ളുന്നു സംസ്കാരത്തിന്റെ പ്രാതിനിധ്യമെന്ന നിലയിൽ ഭക്ഷണത്തിന്റെ ഈ വശവും ബന്ധങ്ങളിലെ നമ്മുടെ വൈകാരിക മുൻഗണനകളും വ്യത്യസ്ത തരം മാധ്യമങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു ജനപ്രിയ സിനിമയായ നെയിംസേക്ക് എന്ന ചിത്രത്തിലെ ചിത്രീകരണത്തെ ഞാൻ ഇവിടെ പ്രത്യേകം പരാമർശിക്കും ഈ സിനിമയിൽ പിതാവിന്റെ പെട്ടെന്നുള്ള മരണശേഷം ഗോഗോളിന്റെ മാറുന്ന മുൻഗണനകൾ ഒരു പ്രത്യേക തരം ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ പ്രതിഫലിക്കുന്നതായി കാണുന്നു അതിനാൽ സംസ്കാരമെന്ന നിലയിൽ ഭക്ഷണം പാരമ്പര്യവും നൊസ്റ്റാൾജിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൌന്ദര്യാത്മക ഐഡന്റിറ്റിയുടെയും അതുല്യതയുടെയും അലങ്കാരബഹുലമായ ശേഖരണവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഭക്ഷണം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന നിലയിൽ ഉപഭോഗവുമായി ബന്ധപ്പെട്ടതാണ് അത് ഒരു പ്രത്യേക വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതേസമയം വ്യത്യസ്ത സാംസ്കാരിക ചുറ്റുപാടുകളിൽ ഒരു സ്ഥലത്തിന്റെ ലിംഗഭേദം സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രധാന സന്ദേശമാണ് ഉദാഹരണത്തിന് ഭക്ഷണം തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക ലിംഗവുമായി മാത്രം ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇടം ലിംഗഭേദം ഉൾക്കൊള്ളുന്നു വിവിധ സംസ്കാരങ്ങളിലെ ഗാർഹിക അടുക്കള ഒരു ഉദാഹരണമായി എടുക്കാം അത് സ്ത്രീകൾക്ക് മാത്രമേ ഭരിക്കാനാകൂ പുരുഷന്മാർ ഈ സ്ഥലത്ത് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല ശരീരഭാഷയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഭക്ഷണത്തിൽ നിന്നുള്ള അർത്ഥങ്ങൾ പ്രധാനമാണ് കാരണം ഏത് പ്രൊഫഷണൽ സാഹചര്യങ്ങളിലും വ്യക്തികളുടെ നരവംശശാസ്ത്രപരവും സാമൂഹികവും മനശാസ്ത്രപരവുമായ വശങ്ങളും ആയുള്ള വിവിധ ബന്ധങ്ങളെ കുറിച്ച് ഇത് സൂചന നൽകുന്നു ലിഖിതവും പ്രതിരൂപവുമായ വാചകം ടിവി സിനിമകൾ ജനപ്രിയ സാഹിത്യം സമൂഹമാധ്യമങ്ങൾ എന്നിവയിൽ ഭക്ഷണ ആശയവിനിമയത്തിലും ഭക്ഷണത്തിന്റെ പ്രാതിനിധ്യത്തിലും ഈ വശങ്ങൾ വ്യക്തമായി ഉയർന്നുവരുന്നു ശരീരഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിന്റെ ഒരു പ്രധാന സൂചനയായി ഭക്ഷണത്തെ ഒരു സ്വതന്ത്ര ഭാഷയായി വ്യാഖ്യാനിക്കാൻ തുടങ്ങിയതായി നമുക്ക് മനസ്സിലാകും നമ്മുടെ വസ്ത്രധാരണം പോലെ സുഗന്ധദ്രവ്യങ്ങൾ പോലെ ആക്സസറികൾ പോലെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയും എല്ലാം ഇന്നത്തെ ലോകത്ത് മനസ്സിലാക്കേണ്ട ഒരു ഭാഷയായി മാറിയിരിക്കുന്നു ആശയവിനിമയ പഠനങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന്ഭക്ഷണം അർത്ഥം സൃഷ്ടിക്കുന്നതിൽ ഒരു പ്രധാന ചിഹ്നം ആണ് പ്രൊഫഷണൽ ക്രമീകരണങ്ങളിൽ ഭക്ഷണം ഒരു ആശയവിനിമയ പരിശീലനമായി പ്രതീകാത്മകമായി പ്രവർത്തിക്കുന്നു അതിലൂടെ അർത്ഥങ്ങൾ മറ്റുള്ളവരുമായി സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും പങ്കിടുകയും ചെയ്യുന്നു ഗ്യാസ്ട്രോണമിക് ക്രമീകരണങ്ങളിൽ ജോലിസ്ഥലത്ത് ഈ ധാരണയും പ്രധാനമാണ് അതേസമയം ഭക്ഷണവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും നമ്മുടെ പ്രദേശവും ദേശീയ സ്വത്വവും എന്ന ആശയവുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുകയോ ഭക്ഷണത്തെക്കുറിച്ച് എഴുതുകയോ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ ചിത്രങ്ങളെ പ്രതിനിധീകരിക്കുകയോ ചെയ്യുന്നത് അന്താരാഷ്ട്ര സന്ദർഭങ്ങളിൽ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രശ്നങ്ങൾ ഉയർത്തുന്നു ജീവിതത്തോടുള്ള ഒരു സംസ്കാരത്തിന്റെ സമീപനത്തെക്കുറിച്ചും ഒരു പ്രത്യേക സംസ്കാരത്തിൽ എന്താണ് വിലപ്പെട്ടത് എന്നത്തിനെക്കുറിച്ചും ഇത് നമ്മോട് പറയുന്നു ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണലിനെ രൂപപ്പെടുത്തുന്ന സംസ്കാരം ശീലങ്ങൾ ആചാരങ്ങൾ പാരമ്പര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം ഭക്ഷണത്തിലൂടെയും അതിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിലൂടെയും കണ്ടെത്താനാകും ശരീരഭാഷയുടെ ഈ വശം ഇപ്പോൾ പ്രധാനമാണ് ഈ ഉയർന്നുവരുന്ന മേഖലയിലെ രസകരമായ മറ്റൊരു കാര്യം ഭക്ഷണവുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിന് ദൈനംദിനതയുണ്ട് എന്നതാണ് അതിനാൽ എൻ വി സികളുടെ പശ്ചാത്തലത്തിൽ ഇത് സാഹിത്യ നിരൂപണത്തിന്റെയും ആശയവിനിമയ പഠനത്തിന്റെയും ഭാഗമായി മാറുകയാണ് ആഗോള ഗ്രാമത്തെയും അന്തർലീനമായ ജോലിസ്ഥലങ്ങളെയും കുറിച്ചുള്ള ആശയം ഈ സംവേദനക്ഷമതയെ ഇന്നത്തെ പ്രൊഫഷണലുകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു നിർബന്ധിത വൈദഗ്ധ്യമാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഭാഷാശാസ്ത്രത്തിനുപുറമെ എൻവിസിയുടെ ഭാഗമായി സൈലൻസിനെ കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്നു സൈലൻസ് എന്നാൽ വാക്കുകളുടെ അഭാവമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും ശബ്ദമോ ആയി മനസ്സിലാക്കാം എന്നിട്ടും സൈലൻസ് നമ്മുടെ അർത്ഥങ്ങളെ പ്രതിനിധീകരിക്കുന്ന രീതി വളരെ സൂക്ഷ്മമാണ് എന്നിട്ടും അത് അനുരണനമാണ് മിക്കപ്പോഴും ചില സമൂഹങ്ങളിലും സംസ്കാരങ്ങളിലും ഇത് ജ്ഞാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൈലൻസിൻറെ അർത്ഥങ്ങൾ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആകാം ഇത് അസഹ്യവും ലജ്ജാകരവുമായ ഒരു താൽക്കാലിക പോസ് ആകാം സ്പീക്കർ മനപൂർവ്വം വാക്കുകൾ തടഞ്ഞുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നീണ്ട പോസ് ആകാം മറുവശത്ത് പോസിറ്റീവ് സൈലൻസ് ആത്മവിശ്വാസം മറ്റുള്ളവരോടുള്ള ആദരവ് വ്യക്തി ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു കൂടാതെ വ്യക്തി എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ തിടുക്കപ്പെടുന്നില്ലെന്ന് നിർദ്ദേശിക്കുന്നതിലൂടെ പക്വതയെ സൂചിപ്പിക്കുന്നു നമ്മുടെ ആശയവിനിമയത്തിന്റെ ഭാഗമായി സൈലൻസ് മനസ്സിലാക്കേണ്ട രീതിയിലും സാംസ്കാരിക വ്യത്യാസങ്ങളുണ്ട് എഡ്വേർഡ് ടി ഹാളിന്റെ ഗവേഷണങ്ങൾ ഞാൻ ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു പാരലാങ്വേജിനെക്കുറിച്ചുള്ള പഠനങ്ങളിലും ഈ ഗവേഷണങ്ങൾ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് ചില സമൂഹങ്ങളിൽ വാക്കുകൾ പ്രധാനമാണെന്ന് എഡ്വേർഡ് ടി ഹാൾ അഭിപ്രായപ്പെട്ടു ഇതിനു ഉദാഹരണമായി അമേരിക്കൻ ബ്രിട്ടീഷ് സമൂഹങ്ങളുടെ മാതൃക അദ്ദേഹം നൽകി അതിനാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അമേരിക്കൻ ബ്രിട്ടീഷ് സമൂഹങ്ങൾ പദസംസ്കാരങ്ങളാണ് അതേസമയം തുറന്ന നോണ് വെർബൽ സൂചനകളെയും സൈലൻസിനെയും ഉൾക്കൊള്ളുന്ന അടയാളങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്ന മറ്റ് നിരവധി സമൂഹങ്ങളുണ്ട് സാംസ്കാരിക വ്യത്യാസങ്ങൾ മനസിലാക്കുന്നതിനൊപ്പം സന്ദർഭത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യവും പ്രധാനമാണ് കാരണം ഇതിലൂടെ അർത്ഥത്തിന്റെ സമഗ്രത നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും അതേസമയം ശരീരഭാഷയുടെ ചില വശങ്ങൾ ആക്രമണാത്മകവും അക്രമാസക്തമായ കോപവും നിർദ്ദേശിക്കുന്നു ചില കൈ ചലനങ്ങൾ ചില ഭാവങ്ങൾ മുഖത്തെ ഭാവങ്ങൾ എന്നിവ ഭീഷണിപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമാണ് ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൈലൻസ് അനിവാര്യമായ ഒരു നോൺ വൈലൻഡ് ആശയവിനിമയമായി കണക്കാക്കപ്പെടുന്നു ഇത് നെഗറ്റീവ് അർത്ഥങ്ങൾ സൂചിപ്പിക്കുമെങ്കിലും അക്രമം ഒരിക്കലും അവയിലൊന്നല്ല സൈലൻസിൻറെ ക്രിയാത്മക വ്യാഖ്യാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സംസാരിക്കുന്ന മറ്റൊരാളോടുള്ള ബഹുമാനത്തിന്റെ അടയാളമായി അല്ലെങ്കിൽ നിശബ്ദത പാലിച്ച് മറ്റൊരാളോട് യോജിക്കാനുള്ള ആഗ്രഹമായിട്ടാണ് നമ്മൾ സാധാരണയായി അതിനെ വ്യാഖ്യാനിക്കുന്നത് അതേസമയം മറുപടി എങ്ങനെ രൂപപ്പെടുത്താമെന്നതിൽ സ്പീക്കർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ മിണ്ടാതിരിക്കാൻ സ്പീക്കർ താൽപ്പര്യപ്പെട്ടേക്കാം നമ്മുടെ ഉത്തരം ശരിയായി ആസൂത്രണം ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും പരസ്പര ഇടപെടലിൽ പ്രേക്ഷകരെ നിയന്ത്രിക്കുന്നതിനുള്ള വളരെ ഫലപ്രദമായ തന്ത്രമായി ഇത് ഉപയോഗിക്കുന്നു സൈലൻസിനു ശേഷം വ്യക്തി സംസാരിക്കേണ്ട കാര്യങ്ങൾക്ക് ഇത് പ്രാധാന്യം നൽകുന്നു ഈ സന്ദർഭങ്ങളിൽ സിസുരയുമായി ഇത് ബന്ധിപ്പിക്കാൻ കഴിയും സിസുര പാരലാംഗേജിന്റെ ഒരു പ്രത്യേക വശമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അതേ സമയം നമ്മുടെ സൈലൻസ് മറ്റൊരാളെ വ്യവഹാര തരങ്ങളിലും സംഭാഷണ ശൈലികളിലുമുള്ള വ്യത്യാസം അടയാളപ്പെടുത്താൻ സഹായിക്കും അത് ഒരു ചോദ്യമായാലും അതിശയകരമായ പ്രകടനമായാലും പരമ്പരാഗതമായി കിഴക്കൻ സംസ്കാരങ്ങളിൽ സൈലൻസിനെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു അതേസമയം ഇത് ചില നെഗറ്റീവ് വ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ചും വാക്കുകൾ പ്രധാനമായിരിക്കുന്ന സംസ്കാരങ്ങളിൽ പലപ്പോഴും സത്യം മറച്ചുവെക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് അപകർഷതാബോധം ശത്രുത അല്ലെങ്കിൽ മര്യാദ ഇല്ലായ്മ എന്നിവയുടെ അടയാളമായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഒരു സംഭാഷണ സമയത്ത് മറ്റൊരാൾക്ക് അപ്രതീക്ഷിത പ്രതികരണം നൽകുന്നതിൽ പരാജയപ്പെടുന്നു എന്നും സൂചിപ്പിക്കുന്നു ആശയവിനിമയത്തിനിടയിലെ ദീർഘനേരത്തെ സൈലൻസ് ഒരു ഫലപ്രദമായ ഉപകരണമാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മറ്റ് വ്യക്തികളിൽ നിന്ന് അധിക വിവരങ്ങൾ ശേഖരിക്കാൻ ഇത് ഉപയോഗിക്കാം ഒരു ഉന്നതനും കീഴുദ്യോഗസ്ഥനും തമ്മിലുള്ള സംഭാഷണത്തിലെ വളരെ ഫലപ്രദമായ തന്ത്രമാണിത് ഇത് ചിന്താശേഷിയും മടിയും അറിയിക്കുകയും എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുവാനും കഴിയും മുമ്പത്തെ മൊഡ്യൂളുകളിൽ നിങ്ങളുമായി നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ വിവിധ വശങ്ങൾ ഞാൻ ചർച്ചചെയ്തു ശരീരഭാഷയെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ നാം മനസിലാക്കേണ്ട ചില പരിമിതികളും ശരീരഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം പ്രവർത്തിക്കേണ്ട ചില അതിരുകളും ഉണ്ട് ശരീരഭാഷ എല്ലായ്പ്പോഴും സംസ്കാര നിർദ്ദിഷ്ടമാണ് അതിനാൽ എന്റെ എല്ലാ ചർച്ചകളിലും വ്യാഖ്യാനങ്ങളിലെ സാംസ്കാരിക വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ശ്രമിച്ചു വംശത്തെയും ലിംഗഭേദത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളും സംസ്കാരത്തിന് പ്രത്യേകമാണ് മിക്കപ്പോഴും വർഗ്ഗീയ അല്ലെങ്കിൽ ക്രോസ് ജെൻഡർ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഒരു വ്യക്തിയോട് പ്രതികരിക്കുന്നതിനുപകരം നമ്മൾ ക്ലാസുകളിലെ വിഭാഗങ്ങളെ ആശ്രയിക്കുന്നു ഏത് പ്രൊഫഷണൽ ഡയലോഗിലും ഈ വിഷയത്തിലുള്ള നമ്മുടെ വ്യക്തിപരമായ ഡയലോഗുകളിൽ പോലും ഇത് പലപ്പോഴും റഫറൻസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നതിലേക്ക് നയിക്കുന്നു ഇത് നമ്മുടെ ആശയവിനിമയത്തിലെ ഒരു പക്ഷപാതമായി മാറുന്നു സന്ദേശത്തെ ഫലപ്രദമായി മനസ്സിലാക്കുന്നതിനുള്ള ഒരു തടസ്സമായി ഇത് മാറുന്നു അതിനാൽ നമ്മുടെ ആശയവിനിമയത്തിൽ പൊതുവായ കാലഹരണപ്പെട്ട ധാരണകളൊന്നും ആശ്രയിക്കേണ്ടതില്ല എന്നത് പ്രധാനമാണ് ഉദാഹരണത്തിന് ഒരു പ്രത്യേക വംശത്തെ ഒരു പ്രത്യേക തരം പെരുമാറ്റമുള്ളതായി ബന്ധപ്പെടുത്താൻ കഴിയില്ല ചില പ്രത്യേകതകളും സവിശേഷതകളും ഒരു ലിംഗഭേദവുമായി മാത്രം ബന്ധപ്പെടുത്താനും കഴിയില്ല ഈ സാമാന്യവൽക്കരണങ്ങൾ ഒരിക്കലും ശരീരഭാഷയെക്കുറിച്ചുള്ള പ്രൊഫഷണൽ ധാരണയുടെ ഭാഗമാകരുത് ശരീരഭാഷയുടെ കാര്യത്തിൽ ലിംഗ മുൻഗണനകളിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള വിവിധ ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട് സൂക്ഷ്മമായി ഞാൻ ഇത് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ജോലിസ്ഥലങ്ങളിൽ ഈ വ്യത്യാസങ്ങൾക്കു പ്രാധാന്യം നൽകാതെ പലപ്പോഴും സ്ഥിരവും സന്തോഷത്തോടെയും നീങ്ങുന്നുവെന്ന് എനിക്ക് തോന്നുന്നു അതിനാൽ സ്റ്റീരിയോടൈപ്പിംഗ് ഒരു ശീലമാണ് അത് മറ്റ് വ്യക്തികളുടെ ശരീരഭാഷയെ വ്യാഖ്യാനിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലായ്പ്പോഴും ഒഴിവാക്കണം ശരീരഭാഷയുടെ പ്രാധാന്യം പലപ്പോഴും മറ്റൊരാളെക്കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തലിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിനാൽ നമ്മുടെ ശരീരഭാഷ പോസിറ്റീവായി പ്രദർശിപ്പിക്കേണ്ടത് പ്രധാനമാണ് നമ്മുടെ പ്രൊഫഷണൽ ലോകത്ത് ശരീരഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് തുറന്ന നിലപാട് താൽപ്പര്യം ഉത്സാഹം എന്നിവ സൂചിപ്പിക്കുകയും ആശയവിനിമയത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മറുവശത്ത് നെഗറ്റീവ് ബോഡി ലാംഗ്വേജ് ഒരു പ്രൊഫഷണൽ ഇമേജിനെ ദുർബലപ്പെടുത്തുന്നു അതേസമയം ഗവേഷകർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് നമ്മുടെ മാനസികാവസ്ഥയെ നമ്മുടെ സമ്മർദ്ദ നിലകളെ പ്രതികൂലമായി ബാധിക്കുന്നു ഇതിലൂടെ നമ്മുടെ ആത്മാഭിമാനം കുറയുന്നു അതിനാൽ പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് വശങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് നമ്മുടെ ശരീരഭാഷ നിയന്ത്രിക്കുന്നത് മറ്റ് ആളുകളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ വഞ്ചന കാണിക്കാൻ പഠിക്കണമെന്ന് അർത്ഥമാക്കുന്നില്ല നമ്മുടെ ശരീരഭാഷ ഉപയോഗിച്ച് നമുക്ക് നുണ പറയാൻ കഴിയില്ലെന്ന് നാം ഓർക്കണം 2 മിനിറ്റ് ദൈർഘ്യത്തിനപ്പുറം ഒരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് നമ്മൾ അഭിനയിക്കുന്നതാണോ എന്ന് മറ്റൊരാൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും പക്ഷേ നമ്മുടെ ശരീരഭാഷയുടെ പല വശങ്ങളും പഴയ ശീലങ്ങൾ പോലെയാണ് അതിനാൽ നമുക്ക് ഈ ശീലങ്ങൾ മനസിലാക്കാനും കൈനെസിക്സ് ആശയവിനിമയവുമായി ബന്ധപ്പെട്ട കൂടുതൽ പോസിറ്റീവ് വശങ്ങൾ മനസിലാക്കാനും കഴിയും നമ്മുടെ ശരീരഭാഷ പ്രധാനമായും ബോധപൂർവ്വം ഉണ്ടാക്കുന്നത് അല്ലാത്തതുകൊണ്ട് ചില നെഗറ്റീവ് ശീലങ്ങളെ തിരിച്ചറിയാനും ശരീരഭാഷയുടെ കൂടുതൽ പോസിറ്റീവ് വശങ്ങൾ ഉപയോഗിച്ച് അവയെ മാറ്റിസ്ഥാപിക്കാനും നമുക്ക് കഴിയും ഏറ്റവും പുതിയ ശാസ്ത്ര ഗവേഷകർ ശരീരഭാഷയും നമ്മുടെ സെൽഫ് ഇമേജ്ജും തമ്മിലുള്ള അടുത്ത ബന്ധം ചൂണ്ടിക്കാണിക്കുന്നു നമ്മുടെ ശരീരഭാഷ മാറ്റുന്നതിലൂടെ നമ്മുടെ ചിന്താഗതിയിലും മാറ്റം വരുത്താമെന്ന് അഭിപ്രായപ്പെടുന്നു ഈ അവബോധം സാഹിത്യ ഉള്ളടക്കത്തിൽ നിലവിലുണ്ട് എന്നത് ശ്രദ്ധേയമാണ് സാഹിത്യ നിരൂപണത്തിൽ ഈ ശാസ്ത്ര ഗവേഷകർക്ക് മുമ്പുതന്നെ അധികാരത്തെക്കുറിച്ചുള്ള വിശകലനം നടത്തിയ ഫൂക്കോയെ അദ്ദേഹം നടത്തിയ രണ്ടാമത്തെ പ്രഭാഷണത്തെക്കുറിച്ച് ആണ് ഞാൻ ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രഭാഷണത്തിൽ അധികാരം എങ്ങനെ വിനിയോഗിക്കുന്നുവെന്ന് അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു ഒരു ഫൂക്കോഡിയൻ വാദത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ആണ് ഞാൻ വിരൽ ചൂണ്ടുന്നത് അതിൽ അച്ചടക്കത്തിലൂടെയും പരിശീലനത്തിലൂടെയും ആളുകളുടെ പുതിയ ആംഗ്യങ്ങൾ പ്രവർത്തനങ്ങൾ ശീലങ്ങൾ കഴിവുകൾ ഒടുവിൽ പുതിയ തരങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്നതിനുള്ള ശക്തി പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ശരീരഭാഷ നിയന്ത്രിക്കുന്നതും മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുന്നതും തമ്മിലുള്ള ബന്ധം ഈ പ്രഭാഷണത്തിൽ ഫൂക്കോ പറയുന്നു സമീപകാല ശാസ്ത്ര ഗവേഷണങ്ങൾ വഴി ഈ ആശയം എങ്ങനെ ശക്തിപ്പെടുത്തി എന്ന് നമ്മൾ ഇതിനകം കണ്ടു നമ്മുടെ ശരീരഭാഷ നിയന്ത്രിക്കുന്നതിന് നാം ബോധപൂർവ്വം സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ശരീരഭാഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടാകാനിടയുള്ള നെഗറ്റീവ് സ്വഭാവങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നതാണ് തീർച്ചയായും ആദ്യ പടി നമ്മുടെ സ്വന്തം രീതി ഭാവങ്ങൾ ആംഗ്യങ്ങൾ ഗെയ്റ്റ് ഫേഷ്യൽ എക്സ്പ്രഷനുകൾ ടോണാലിറ്റി തുടങ്ങിയ ആവശ്യമുള്ള മേഖലകളെ ബോധപൂർവ്വം തിരിച്ചറിയുകയും അവലോകനം ചെയ്യുകയും ചില മാറ്റങ്ങൾ വരുത്തുകയും വേണം ഇതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകൾ തയ്യാറാക്കുന്നതും ചില ഫോട്ടോഗ്രാഫുകൾ എടുക്കുന്നതും സഹായകരമായിരിക്കും അതേസമയം മികച്ച ആശയവിനിമയക്കാരായ ആളുകളുടെ ശരീരഭാഷ പഠിക്കാൻ നമുക്ക് കഴിയും കൂടുതൽ പോസിറ്റീവ് ശരീരഭാഷയുള്ള ആളുകളുടെ ആംഗ്യങ്ങൾ അനുകരിക്കാൻ നമുക്ക് പഠിക്കാം ശരീരഭാഷയുടെ പുതിയതോ അതിലധികമോ പോസിറ്റീവ് വശങ്ങൾ പഠിക്കുന്നതുവരെ ഫലപ്രദമായ ഉപകരണമായ എൻഎൽപി പരിശോധിക്കുന്നു ഈ ഇടപെടലുകൾ നമ്മുടെ പ്രോഗ്രാമിംഗിനെയോ സ്വഭാവത്തെയോ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിശദീകരിക്കുന്നു എൻഎൽപി നമ്മളെ റോൾ മോഡലുകൾ നോക്കുന്നതിനുപകരം മോഡലുകൾ നോക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഒരു തച്ചനെ തന്റെ തൊഴിലിൽ മികവു പുലർത്തുകയും അയാളുടെ ഉപകരണങ്ങളുമായി പ്രവർത്തിക്കുന്നത് നിരീക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവന് ബോധപൂർവ്വം ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ടെന്നും ഈ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കാൻ കഴിയുമെന്നും കണ്ടെത്തുന്നു അതേസമയം അദ്ദേഹം തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ ബോധപൂർവ്വം അല്ലാതെ ചില നടപടികൾ കൈക്കൊള്ളുകയും അത് അവനെ ഒരു മികച്ച തച്ചനാക്കുകയും ചെയ്യും ബോധപൂർവ്വം അല്ലാതെ ഉള്ള ഈ പെരുമാറ്റരീതികളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവയെ അനുകരിക്കാൻ ശ്രമിക്കുകയും വേണം എൻഎൽപിയുടെ ഈ വശമാണ് പെരുമാറ്റത്തിൽ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നോക്കുന്നതിലൂടെ പെരുമാറ്റവും ശരീരഭാഷയും കൂടുതൽ ഗുണപരമായ സ്വഭാവവിശേഷങ്ങൾ മനസിലാക്കാൻ സഹായിക്കുന്നത് മറ്റ് ചില ഘട്ടങ്ങളിൽ മിററിംഗ് ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് മറ്റ് ആളുകളുടെ പോസ്റ്റർ പഠിക്കുക മറ്റ് ആളുകളുടെ മൈക്രോ എക്സ്പ്രഷനുകൾ നോക്കുക തുടർന്ന് അവരെ അനുകരിക്കുക പക്ഷേ അത് വളരെ ബോധപൂർവമായ രീതിയിലാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മറ്റേയാൾക്ക് അപമാനം തോന്നാം അതേ സമയം മനസിലാക്കിയ മാറ്റങ്ങളുടെ ഈ പ്രക്രിയയിൽ നാം അസ്വസ്ഥരാകരുത് നമ്മുടെ ശരീരഭാഷയിലെ ചെറിയ വശങ്ങൾ മാറ്റിക്കൊണ്ട് ആരംഭിക്കാനും ബോധപൂർവവും നിയന്ത്രിതവുമായ രീതിയിൽ അത് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ജോലിസ്ഥലത്ത് ഇരിക്കുമ്പോൾ കാല് പൊസിഷൻ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക മാറ്റം നമ്മുടെ ശരീരഭാഷയുമായി ബന്ധപ്പെട്ട ചെറിയ വശങ്ങൾ മാറ്റിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം ഉദാഹരണത്തിന് ജോലിസ്ഥലത്ത് ഇരിക്കുമ്പോൾ കാലുകളുടെ പൊസിഷൻ മാറ്റാൻ നമ്മൾ ആഗ്രഹിച്ചേക്കാം അല്ലെങ്കിൽ ഒരു പ്രത്യേക കൈ ആംഗ്യം ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ പുഞ്ചിരിക്കാൻ നമ്മൾ ആഗ്രഹിച്ചേക്കാം അല്ലെങ്കിൽ നമ്മുടെ സംഭാഷണത്തിൽ മികച്ച നേത്ര സമ്പർക്കം നിലനിർത്താൻ ആഗ്രഹിച്ചേക്കാം ഈ വശങ്ങൾ ഒറ്റപ്പെടുത്താനും എളുപ്പത്തിൽ പരിശീലിക്കാനും കഴിയും ക്രമേണ പരിശീലനം മികച്ച ശരീരഭാഷ നേടാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു അതേസമയം ഒരു പ്രത്യേക കൈനെസിക്സ് വശം പരിശീലിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളും നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയും നമുക്ക് സുഖകരമായി തോന്നുന്ന പൊതുസ്ഥലങ്ങളിൽ നമ്മുടെ ആശയവിനിമയ സമയത്ത് നമ്മുടെ ശരീരഭാഷയിൽ മികച്ച നിയന്ത്രണം ഉണ്ടായിരിക്കും വാക്കാലുള്ള വിരാമങ്ങൾ ഒഴിവാക്കുന്ന ശീലവും നാം വളർത്തിയെടുക്കണം 'ഉം' 'ഓഹ്' പോലുള്ള താൽക്കാലിക വിരാമങ്ങളും പദപ്രയോഗങ്ങളും ഉപയോഗിച്ച് നമ്മുടെ ഉത്തരങ്ങൾ പൂരിപ്പിക്കുന്നു അടിസ്ഥാനപരമായി പോസിറ്റീവായി തീർച്ചയായും പോലെ അർത്ഥമില്ലാത്ത ഒരു വാക്ക് ഉപയോഗിക്കുന്നു അതിനാൽ ആവർത്തിച്ചുള്ള ഈ വാക്കുകൾ നമ്മുടെ പെരുമാറ്റത്തിൻറെ ഭാഗമാകുകയും നമ്മൾ ആശയവിനിമയത്തിനു തയ്യാറല്ലെന്നും ഒരു പ്രത്യേക സന്ദേശം കൈമാറാൻ നമുക്ക് വിശ്വാസമില്ലെന്നും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു അലോസരപ്പെടുത്തുന്ന ശ്രദ്ധ തിരിക്കുന്ന പ്രവർത്തികൾ ഉദാഹരണത്തിന് തൊണ്ട ആവർത്തിച്ച് ശബ്ദമുണ്ടാക്കി ശരിയാക്കുക അല്ലെങ്കിൽ ആഴത്തിൽ നെടുവീർപ്പിടുക എന്നിവയും നമ്മുടെ ആശയവിനിമയത്തിൽ ഒഴിവാക്കണം നമ്മുടെ ശരീരഭാഷയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് വശങ്ങളെ മറികടക്കാൻ ഇവ നമ്മളെ സഹായിച്ചേക്കാം ഈ രസകരമായ വീഡിയോയുടെ സഹായത്തോടെ ഈ വശം കൂടുതൽ മനസിലാക്കാൻ കഴിയും ചില സംഭവങ്ങളോട് പ്രതികരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെ ആംഗ്യം കാണിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് വീഡിയോ ഈ വീഡിയോ റഷ്യൻ നേതാവ് പുട്ടിന്റെ ശരീരഭാഷ വിശകലനം ചെയ്യുന്നു ഇത് വളരെ രസകരമായ ഒരു വിശകലനമാണ് വ്ളാഡിമിർ പുട്ടിന്റെ അടുത്ത നീക്കം എന്താണെന്ന് കണ്ടെത്താൻ അനലിസ്റ്റ് ശ്രമിക്കുന്നു ഏറ്റവും മികച്ച സൂചനകൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലാണ് യുഎസ്എ ടുഡേയുടെ അത്തരം ഗവേഷണങ്ങൾ അംഗീകരിച്ചു ഇവിടെ സൂചനകളിൽ വ്യത്യാസമില്ലെന്നും ഉക്രെയ്നിനെക്കുറിച്ച് മന്ത്രി തീരുമാനമെടുക്കേണ്ടതുണ്ടെന്നും അതിനാൽ പുടിന്റെ ഏറ്റവും പുതിയ പത്രസമ്മേളനത്തിൽ സൂചനകളുടെ പഠനം മറ്റ് ശരീരഭാഷാ വിദഗ്ധരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അദ്ദേഹം സിഎൻഎൻ ഇൽ വളരെ ആക്രമണാത്മകമാണ് ഇത് ഒരു ചോപ്പ് പോലെയാണ് ഇത് വളരെ ആക്രമണാത്മകമാണ് തന്റെ നോൺ വെർബൽ സൂചനകളാൽ നമ്മെ ഭയപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു ഒരു പ്രൊഫസർ തന്റെ ടെക് യൂണിവേഴ്സിറ്റിയെ വാക്കുകളാൽ ആക്രമിക്കുന്നു അവിടത്തെ വാക്കാലുള്ള ആശയവിനിമയത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ വിശദീകരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് വളരെ പ്രകോപന സ്വഭാവം ഉള്ളതാണെങ്കിലും ഇവിടെ പുടിൻ ശാന്തമായി സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം വഞ്ചനാപരമാണ് കാരണം അദ്ദേഹം തുറന്ന രീതിയിൽ അയാളോട് യുദ്ധം ചെയ്യുന്നില്ല ഒരുപക്ഷേ അദ്ദേഹത്തിന് ഇതിനായി കുറച്ച് പരിശീലനം ഉണ്ടായിരിക്കാം പുടിനോടൊപ്പം പ്രവർത്തിച്ച എൻഎൽപി ബോഡി ലാംഗ്വേജ് വിദഗ്ദ്ധനാണ് അദ്ദേഹം മുൻ കെജിബി ഉദ്യോഗസ്ഥനെ പഠിപ്പിച്ച ആദ്യത്തെ കാര്യങ്ങളിലൊന്ന് മുൻ സോവിയറ്റ് രാഷ്ട്രീയക്കാരിൽ നിങ്ങൾ കാണുന്ന ആക്രമണാത്മക ആംഗ്യങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു റഷ്യക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ശരീരഭാഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതലും പുരുഷന്മാർ ഇത് മറ്റേതൊരു രാജ്യവും ഉപയോഗിക്കുന്നില്ല മറ്റുള്ളവരുടെ ശരീരഭാഷയെ വ്യാഖ്യാനിക്കുന്ന രീതിയുമായി പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് എല്ലായ്പ്പോഴും ക്ലസ്റ്ററുകളിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നതാണ് അത് ഉൾക്കൊള്ളുന്ന ശരീരഭാഷയാണെങ്കിലും ഉൾക്കൊള്ളാത്തവയാണെങ്കിലും ഇത് ഒരു മുഖാമുഖ ആശയവിനിമയമോ സമാന്തരമോ ആണെങ്കിലും അത് യോജിച്ചതോ പൊരുത്തമില്ലാത്തതോ ആണെങ്കിലും ഒറ്റപ്പെട്ട ആംഗ്യം ഭാവം കണ്ണ് പുഞ്ചിരി തുടങ്ങിയവ വ്യത്യസ്ത അർത്ഥങ്ങളുള്ള ഒരു വാക്ക് പോലെയാണെന്ന് നാം മനസ്സിലാക്കണം രണ്ടോ അതിലധികമോ കൈനെസിക്സ് സിഗ്നലുകളുടെ സംയോജനമുണ്ടെങ്കിൽ അത് ഒരു വാക്യമായി മാറുന്നു അതേസമയം സമയത്തിന്റെ അളവും മറ്റൊരാളുടെ ശരീരഭാഷ നോക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തിയാൽ അത് ഒരു ഖണ്ഡിക പോലെയാണ് തിടുക്കത്തിലുള്ള നിഗമനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ഈ ധാരണ സഹായിക്കുന്നു ഒരു ഒറ്റപ്പെട്ട കൈനെസിക്സ് ചലനം കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ വികാരങ്ങളുടെ ഉദ്ദേശ്യങ്ങളെക്കുറിച്ച് നിഗമനം ചെയ്യാൻ ഒരിക്കലും തിടുക്കപ്പെടരുത് സന്ദർഭത്തെയും സാംസ്കാരിക ചട്ടക്കൂടുകളെയും കുറിച്ചുള്ള അവബോധം ഒരുപോലെ പ്രധാനമാണ് പ്രത്യേക എൻകോഡിംഗ് വ്യക്തിഗതമായി പഠിക്കാൻ കഴിയുമെങ്കിലും ഉദാഹരണത്തിന് നമുക്ക് നേത്ര സമ്പർക്കം അല്ലെങ്കിൽ ഒരു പ്രത്യേക ആംഗ്യം നോക്കാനും ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കാനും കഴിയും നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ ചലനാത്മക സ്വഭാവം മികച്ച രീതിയിൽ പഠിക്കുന്നത് ആശയവിനിമയ സമയത്താണ് അതിനാൽ ഭാഷാപരമായ അർത്ഥവുമായി സമാന്തരമായി ശരീരഭാഷ നോക്കുമ്പോഴും മറ്റുള്ളവരിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴും വാക്കുകൾ വാക്യങ്ങൾ ഖണ്ഡികകൾ എന്നിവ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഈ കോഴ്സ് സമയത്ത് ശരീരഭാഷയുടെയും ശരീരഭാഷയുടെ സൂക്ഷ്മതകളും വിശദാംശങ്ങളും വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ദൈനംദിന പ്രൊഫഷണൽ ജീവിതത്തിലെ സർവ്വവ്യാപിയായ പ്രതിഭാസമാണ് അതിനാൽ ഈ സർട്ടിഫിക്കേഷൻ കോഴ്സിനിടെ ശരീരഭാഷയുടെ സൂക്ഷ്മ വിശദാംശങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ദൈനംദിന ഔദ്യോഗിക ജീവിതത്തിൽ സർവ്വവ്യാപിയായ ഒരു പ്രതിഭാസമായി മാറിയിരിക്കുന്നു ആഴ്ചകളായി വ്യത്യസ്ത മൊഡ്യൂളുകളിൽ നമ്മുടെ ശരീരഭാഷയിലൂടെ ആശയവിനിമയം നടത്തുന്ന വ്യത്യസ്ത സന്ദേശങ്ങൾ നമ്മൾ അത് എങ്ങനെ അയയ്ക്കുന്നു അവ എങ്ങനെ മറ്റുള്ളവരുമായി ഒരു നോൺ വെർബൽ രീതിയിൽ പങ്കിടുന്നു ഏത് സാഹചര്യത്തിലാണ് അവയുടെ സ്വാധീനം പ്രാധാന്യമർഹിക്കുന്നത് ഇതൊക്കെ നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥലബോധം സ്പർശം സമയം മണം പ്രത്യക്ഷപ്പെടലുകളിലെ മുഖഭാവം എന്നിവയുമായി ബന്ധപ്പെട്ട് ശരീരഭാഷയുടെ പ്രാധാന്യം വിശദീകരിക്കാനും വിലയിരുത്താനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം പഠനത്തിന്റെ ഉയർന്നുവരുന്ന മേഖലകളായ ഗസ്റ്റോറിക്സ് കൊണ്ടുപോകുന്നതുവരെ ആശയവിനിമയത്തിൻറെ പഠനം ഒരിക്കലും പൂർത്തിയാകില്ല അതേസമയം അതിന് ചില പരിമിതികളുണ്ട് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയ സന്ദർഭത്തിനകത്ത് ഈ ചർച്ചകൾ മനസ്സിലാക്കണം ഇത് നിങ്ങൾക്ക് അർത്ഥവത്തായ ഒരു കോഴ്സ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് പഠിപ്പിക്കുന്നത് ഞാൻ ആസ്വദിച്ചു